ഹലോ സോഫ്റ്റ് സ്കിൽസും വ്യക്തിത്വവും വികസിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള എൻപിടിഇഎൽ മൂക്കിന്റെ കോഴ്സിലേക്ക് വീണ്ടും സ്വാഗതം ഇത് എട്ടാമത്തെ ആഴ്ചയാണ് ഈ കോഴ്സിന്റെ അവസാന ആഴ്ചയാണ് ഇത് മൊഡ്യൂൾ നമ്പർ 1 പ്രഭാഷണ നമ്പർ 43 ആണ് ഈ ആഴ്ച ഞാൻ അവതരണ വൈദഗ്ധ്യത്തോടെ ആരംഭിക്കാൻ പോകുന്നു അവതരണ വൈദഗ്ധ്യത്തെക്കുറിച്ചുള്ള ഈ മൊഡ്യൂളുകൾക്കായി നിങ്ങളിൽ ഭൂരിഭാഗവും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഞാൻ ആരംഭിക്കാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അത് ഭയത്തെ മറികടക്കുന്ന ഒരു നല്ല പ്രൊഫഷണൽ അവതാരകനാകാൻ നിങ്ങളെ അനുവദിക്കുന്നില്ല പൊതു സംസാരത്തിലും അവതരണ വൈദഗ്ധ്യത്തിലും എങ്ങനെ ആത്മവിശ്വാസം വളർത്താം ഇപ്പോൾ ഞാൻ ആരംഭിക്കുന്നതിന് മുമ്പ് മുമ്പത്തെ പ്രഭാഷണത്തിൽ ഞാൻ എന്താണ് ചെയ്തതെന്ന് നമുക്ക് വേഗത്തിൽ അവലോകനം ചെയ്യാം മുൻ പ്രഭാഷണത്തിൽ ഞാൻ അഭിമുഖങ്ങൾക്കായി ശരീരഭാഷയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു ഗ്രൂപ്പ് ചർച്ചകൾക്കുള്ള ശരീരഭാഷ നിങ്ങളുടെ രൂപം മനോഭാവം വ്യക്തിത്വം പോസിറ്റീവ് വീക്ഷണം എന്നിവ പോലുള്ള അഭിമുഖത്തിനായി ഞങ്ങൾ പഠിച്ചതിന് സമാനമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആരംഭിച്ചത് അഭിമുഖങ്ങളെ സംബന്ധിച്ചിടത്തോളം അവയെല്ലാം പ്രധാനമാണ് ശരീരഭാഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വശം വസ്ത്രധാരണം ചെയ്യുക തുടർന്ന് വസ്ത്രധാരണത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ചെയ്യേണ്ടതും ചെയ്യരുതാത്തതുമായ വിവിധ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ചർച്ച ചെയ്തു ഏറ്റവും യാഥാസ്ഥിതികവും അലങ്കാരം കുറഞ്ഞതുമാണ് ഏറ്റവും ആകർഷകം ഹാൻഡ്ഷേക്ക് ഉറച്ച ഹാൻഡ്ഷേക്ക് ആയിരിക്കണം ഇത് ചത്ത മത്സ്യമോ അല്ലെങ്കിൽ ഈ നക്കിൾ ഗ്രൈൻഡിംഗ് ഹാൻഡ്ഷേക്കോ ആംഗ്യത്തിൻറെ കാര്യത്തിൽ ശരീരഭാഷയോ നേത്ര സമ്പർക്കം നിലനിർത്തുന്ന കാര്യത്തിൽ മുതലായവ തികഞ്ഞതായിരിക്കരുത് അഭിമുഖം പോലെ ഉത്സാഹം തുടക്കം മുതൽ അവസാനം വരെ നിലനിർത്തണം അഭിമുഖങ്ങളുമായി ബന്ധപ്പെട്ട ഗ്രൂപ്പ് ചർച്ചയുടെ വിവിധ വശങ്ങളും ഘടകങ്ങളും ഞാൻ ചർച്ച ചെയ്തു ഈ സാഹചര്യത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു അഭിമുഖങ്ങളിൽ അല്ലെങ്കിൽ ഒഴികെ ശരീരഭാഷയുമായും മൃദുവായ കഴിവുകളുമായും ബന്ധപ്പെട്ട ഏറ്റവും മികച്ച ഗുണങ്ങൾ രണ്ടോ മൂന്നോ ആകാം അതിനാൽ വ്യക്തിത്വം പോലുള്ള നേതൃത്വം പോലുള്ള ഏറ്റവും മികച്ച കഴിവുകൾ അതിനാൽ അവയെല്ലാം ശരീരഭാഷയുമായും സോഫ്റ്റ് സ്കിൽസുമായും ബന്ധപ്പെട്ടിരിക്കുന്നു ഞാൻ ചർച്ച ചെയ്ത മൂല്യനിർണ്ണയ മാനദണ്ഡങ്ങൾ പോലും അവ യഥാർത്ഥത്തിൽ സോഫ്റ്റ് സ്കിൽസിൽ 75 ശതമാനവും ശരീരഭാഷയിൽ 25 ശതമാനവും മാത്രമാണ് അടിസ്ഥാനമാക്കിയുള്ളതെന്ന വസ്തുത ഞാൻ നിങ്ങൾക്ക് എടുത്തുകാണിക്കാൻ ശ്രമിക്കുന്നു അതിനാൽ പിന്നീട് ഞാൻ നിങ്ങളുമായി ചെയ്യരുതാത്തതും ചെയ്യരുതാത്തതുമായ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ മുന്നോട്ട് പോകുന്നു അടിസ്ഥാനപരമായി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ ഓർമ്മിക്കണം വളരെയധികം സംസാരിക്കാൻ നിങ്ങൾ ഉത്കണ്ഠപ്പെടേണ്ടതില്ല അല്ലെങ്കിൽ നിങ്ങൾ പരിഭ്രാന്തരാകുകയും വളരെ കുറച്ച് സംസാരിക്കുകയും ചെയ്യരുത് നിങ്ങൾ അക്രമാസക്തമായ പെരുമാറ്റം കാണിക്കരുത് അഹങ്കാരപരമായ ആംഗ്യങ്ങൾ ഉപയോഗിക്കരുത് നഖങ്ങൾ കടിക്കുക മൂക്ക് എടുക്കുക കാലുകൾ കുലുക്കുക പേന ഉപയോഗിച്ച് കളിക്കുക ബട്ടൺ ഉപയോഗിച്ച് കളിക്കുക മുടി ഉപയോഗിച്ച് കളിക്കുക തുടങ്ങിയ വിനാശകരമായ ശരീരഭാഷയൊന്നും ഉപയോഗിക്കരുത് ഗ്രൂപ്പിൽ ധാരാളം ആളുകൾ ഉണ്ടെങ്കിലും കണ്ണ് സമ്പർക്കം നിലനിർത്തുന്നത് വളരെ ഫലപ്രദമാണ് ഇത് ഒരുതരം ഏകീകൃത രീതിയിലാണ് ചെയ്യേണ്ടത് പ്രത്യേകിച്ചും ആളുകളുമായി സംസാരിക്കുമ്പോൾ നിങ്ങൾ കണ്ണ് സമ്പർക്കം മാറ്റണം കണ്ണ് സമ്പർക്കം ഉപയോഗിച്ച് നിങ്ങൾക്ക് ചില ആശയങ്ങൾ അംഗീകരിക്കുകയും പുഞ്ചിരിക്കുകയും ചെയ്യുന്ന ഒരാളെ നിങ്ങൾ വിലമതിക്കുന്നുവെന്ന് കാണിക്കാനും കഴിയും തുടർന്ന് നിങ്ങൾ ഉടനീളം സന്തോഷവാനായിരിക്കാനും ശ്രമിക്കണം മുഴുവൻ ജിഡിയിലും തുറന്ന ആംഗ്യങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക പ്രത്യേകിച്ച് തുറന്ന കൈപ്പത്തി തുറന്ന കൈപ്പത്തി ആംഗ്യങ്ങൾ സൂചിപ്പിക്കുന്നത് നിങ്ങൾ വളരെ തുറന്നതും സത്യസന്ധവും തുറന്ന മനസ്സുള്ള വ്യക്തിയുമാണെന്ന് നിവർന്ന് നടക്കുക തുടർന്ന് ഉയരത്തിൽ ഇരിക്കുക തുടർന്ന് സംസാരിക്കുമ്പോൾ മറ്റേ പ്രഭാഷകനിലേക്ക് ചെറുതായി കുനിഞ്ഞ് നിങ്ങൾക്ക് സഹാനുഭൂതിയുണ്ടെന്ന് കാണിക്കുക തുടർന്ന് ചർച്ച ചെയ്യപ്പെടുന്നതിനോട് നിങ്ങൾ ഒരുതരം സമ്മതവും അംഗീകാരവും കാണിക്കുന്നു കൂടാതെ കരാർ കാണിക്കാൻ തലയാട്ടുന്ന ആളുകൾ നിങ്ങളെ ജിഡിയിലും അഭിമുഖങ്ങളിലും വളരെ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാക്കും ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു അഭിമുഖത്തെയും ജിഡിയെയും കുറിച്ചുള്ള ചർച്ചയുടെ അവസാനത്തിൽ ഈ രണ്ട് പ്രവർത്തനങ്ങളും നിങ്ങളെ ഒരു തസ്തികയിലേക്ക് തിരഞ്ഞെടുക്കുന്നതിനായി നടത്തപ്പെടുന്നു ഒരുപക്ഷേ ഇത് ഒരുപക്ഷേ ഇത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആദ്യ പോസ്റ്റായിരിക്കാം അല്ലെങ്കിൽ ഉയർന്ന സ്ഥാനത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പോസ്റ്റായിരിക്കാം ഇപ്പോൾ രണ്ട് സാഹചര്യങ്ങളിലും നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒറ്റരാത്രികൊണ്ട് ശരീരഭാഷ വികസിപ്പിക്കരുത് എന്നത് ഒരു തെറ്റായ ധാരണയാണ് പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള പോസ്റ്റ് ചിലതരം ശരീരഭാഷ ആവശ്യപ്പെടുന്നു നിങ്ങൾ സ്വയം അവതരിപ്പിക്കുന്ന രീതിയിൽ ചിലതരം പരിഷ്ക്കരണം ആവശ്യപ്പെടുന്നു അതിനാൽ ആ ഗുണങ്ങൾ നിങ്ങളുടെ ശരീരഭാഷയിൽ ഉൾക്കൊള്ളുന്നുവെന്ന് നിങ്ങൾ അനുമാനിക്കേണ്ടതുണ്ട് ജോലി ലഭിക്കുന്നതിന് മുമ്പുതന്നെ ജോലിക്ക് ആവശ്യമായ വ്യക്തിത്വം നിങ്ങൾ അനുമാനിക്കുന്നു അതിനാൽ ആ രീതിയിൽ നിങ്ങൾ തയ്യാറാകുകയും നിങ്ങളുടെ തയ്യാറെടുപ്പ് കാണിക്കുകയും ചെയ്യുന്നു ആളുകൾ അഭിമുഖത്തിലോ ഗ്രൂപ്പ് ചർച്ചാ പാനലുകളിലോ അവർ വളരെ മതിപ്പുളവാക്കുകയും നിങ്ങളെ തിരഞ്ഞെടുക്കാൻ അവർ നിർബന്ധിതരാകുകയും ചെയ്യും അതിനാൽ ആ നുറുങ്ങുകളോടെ ഞാൻ മുമ്പത്തെ പ്രഭാഷണം അവസാനിപ്പിച്ചു ഇപ്പോൾ ഇതിൽ നമുക്ക് മൃദുവായ കഴിവുകളും ശരീരഭാഷയും ഉപയോഗിച്ച് നിങ്ങളുടെ വ്യക്തിത്വം വികസിപ്പിക്കുന്നതിനുള്ള അടുത്ത പ്രധാന വശം പൊതു സംസാര വൈദഗ്ദ്ധ്യം അവതരണ വൈദഗ്ദ്ധ്യം കൃത്യമായ വാക്കാലുള്ള അവതരണ വൈദഗ്ദ്ധ്യം എന്നിവയുമായി ബന്ധപ്പെട്ടതാണ് എന്നാൽ നിങ്ങൾക്കെല്ലാവർക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചെറിയ അവതരണങ്ങൾ പോലും നൽകാൻ നിങ്ങൾ ഭയപ്പെടുന്നു എന്നതാണ് വാക്കാലുള്ള അവതരണത്തിലൂടെ നിങ്ങൾക്ക് ഈ ഭയത്തെ എങ്ങനെ മറികടക്കാൻ കഴിയും അനൌപചാരിക സാഹചര്യങ്ങളിൽ നിങ്ങളിൽ പലരും അനായാസമായി സംസാരിക്കും ഉദാഹരണത്തിന് കാന്റീനിൽ നിങ്ങൾക്ക് ഒരു പ്രഭാഷണം നൽകണമെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രഭാഷണം നൽകാം നിങ്ങൾക്ക് അറിയാവുന്ന ഒരു പാർട്ടിയിൽ അവരിൽ ഭൂരിഭാഗവും നിങ്ങളുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകളോ ആണ് തുടർന്ന് നിങ്ങൾ സ്വതന്ത്രമായി ചാറ്റ് ചെയ്യുകയും നിങ്ങൾ കണ്ട ഒരു സിനിമയെക്കുറിച്ച് ഒരു അവലോകനം നൽകുകയും ചെയ്യുന്നു ശരിയായ ആസൂത്രണമില്ലാതെ പോലും നിങ്ങൾ മണിക്കൂറുകളോളം അനായാസമായി സംസാരിക്കുന്നു അത്തരം അത്ഭുതകരമായ പ്രഭാഷണങ്ങൾ നടത്താൻ നിങ്ങൾക്ക് കഴിയും പക്ഷേ നിങ്ങൾക്ക് അത് മണിക്കൂറുകളോളം ചെയ്യാൻ കഴിയും പക്ഷേ 50 അല്ലെങ്കിൽ 100 ആളുകളുടെ പ്രേക്ഷകർക്ക് മുന്നിൽ ഒരു പത്ത് മിനിറ്റ് അവതരണം നൽകാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു അവർ നിങ്ങളുടെ സഹപാഠികളോ നിങ്ങളുടെ സഹപ്രവർത്തകരോ ആണെങ്കിലും നിങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയുമോ ഇപ്പോൾ അനൌപചാരിക സാഹചര്യങ്ങളിൽ മിക്ക ആളുകളും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല തുടർന്ന് അവർ നിർഭയമായി സംസാരിക്കുന്നു എന്നാൽ ആളുകളുടെ മുന്നിൽ പരസ്യമായി ഒരു അവതരണം നൽകാൻ ആവശ്യപ്പെടുമ്പോൾ അവർ ചുരുങ്ങുന്ന ഒരു ജെല്ലിയായി മാറുന്നു തുടർന്ന് പൊതുജനങ്ങളെ അഭിമുഖീകരിക്കാൻ അവർ ഭയപ്പെടുന്നു മിക്കപ്പോഴും നിങ്ങൾ ഒരു പ്രൊഫഷണൽ ആകുമ്പോൾ ഒരു റിപ്പോർട്ടിന്റെ വാക്കാലുള്ള അവതരണമോ ഒരു നിർദ്ദേശത്തിന്റെ വാക്കാലുള്ള അവതരണമോ നൽകാൻ നിങ്ങളോട് ആവശ്യപ്പെടും ഇപ്പോൾ മിക്കപ്പോഴും നിങ്ങൾ ഒരു ഉൽപ്പന്നം വിപണനം ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു പുതിയ ബിസിനസ്സ് നിർദ്ദേശം വിവരിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലും കരിയറിലും നിങ്ങൾ എന്താണ് ചെയ്തതെന്നും ഒരു ലാബ് വികസിപ്പിക്കുന്നതിൽ നിങ്ങൾ എന്താണ് ചെയ്തതെന്നും ഒരു പരീക്ഷണം നടത്തുന്നതിൽ നിങ്ങൾ എന്താണ് ചെയ്തതെന്നും ഒരു പ്രോജക്റ്റ് ചെയ്യുന്നതിൽ നിങ്ങൾ എന്താണ് ചെയ്തതെന്നും എന്തെങ്കിലും വിവരിക്കുകയോ ചെയ്യും അതിനാൽ ഈ സാഹചര്യങ്ങളിലെല്ലാം നിങ്ങൾ ഒരു ചെറിയ അവതരണം നൽകണം ഇപ്പോൾ ആധുനിക കാലത്ത് പവർ പോയിന്റ് അവതരണം ഉപയോഗിച്ച് ഇത് നൽകാൻ നിങ്ങൾക്ക് അനുവാദമുണ്ട് ആ ദിവസങ്ങളിൽ ഞങ്ങൾ ബ്ലാക്ക് ബോർഡ് ഉപയോഗിച്ചിരുന്നു ഇപ്പോൾ നിങ്ങൾക്ക് വൈറ്റ് ബോർഡ് ഉണ്ട് അതിൽ നിങ്ങൾക്ക് ഇപ്പോഴും ബോർഡ് ഉപയോഗിക്കാൻ കഴിയും ഇപ്പോഴും ചില സ്ഥലങ്ങളിൽ ചില പഴയ സ്ഥാപനങ്ങളിൽ ഓവർഹെഡ് പ്രൊജക്ടറുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഇന്ന് അത് പൂർണ്ണമായും പവർ പോയിന്റ് അവതരണത്താൽ മാറ്റിസ്ഥാപിക്കപ്പെടുന്നു ക്യൂ കാർഡുകൾ ചെറിയ കാർഡുകൾ എന്ന് വിളിക്കപ്പെടുന്ന ഹാൻഡ്ഔട്ടുകളോ കൈയ്യെഴുത്ത് കുറിപ്പുകളോ ഉപയോഗിക്കുന്നതിൽ വളരെ മികച്ച മറ്റ് പ്രഭാഷകരുണ്ട് അവർ പ്രധാന വാക്കുകൾ ശ്രദ്ധിക്കുകയും തുടർന്ന് അവർക്ക് വളരെ നല്ല വാക്കാലുള്ള അവതരണം നൽകാൻ കഴിയുകയും ചെയ്യുന്നു അതിനാൽ വാക്കാലുള്ള അവതരണം അതിനെക്കുറിച്ചാണ് നിങ്ങൾ എന്തെങ്കിലും ചെയ്തു തുടർന്ന് നിങ്ങൾ ചെയ്തതിനെക്കുറിച്ച് ഹ്രസ്വമായി നൽകണം അത് 6 മാസമായിരിക്കാം നിങ്ങൾ പിഎച്ച്ഡി ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ അത് 4 വർഷം മുതൽ 6 വർഷം വരെ ചെയ്തു ഒടുവിൽ ഇത്രയും കാലമായി നിങ്ങൾ എന്താണ് ചെയ്തതെന്നതിനെക്കുറിച്ച് നിങ്ങൾ ഈ വാക്കാലുള്ള അവതരണം നൽകണം എന്നാൽ ഇത്രയധികം ചെയ്തുകഴിഞ്ഞാൽ നിങ്ങൾ എന്തിനാണ് ഇത്രയധികം ഭയപ്പെടുന്നത് ഒരു ലളിതമായ സംസാരത്തിന് പോലും നിങ്ങൾ എന്തിനാണ് ഇത്രയധികം ഭയപ്പെടുന്നത് പൊതുജനങ്ങളെ അഭിമുഖീകരിക്കാൻ നിങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത് ഇംഗ്ലീഷിൽ ഒരു പ്രസംഗം നടത്തണമെങ്കിൽ നിങ്ങൾ ഹിന്ദിയിൽ നിന്നോ മറാത്തിയിൽ നിന്നോ ഇംഗ്ലീഷല്ലാതെ മറ്റേതെങ്കിലും മാധ്യമത്തിൽ നിന്നോ ആണെന്നാണ് ചിലർ കരുതുന്നത് അതിനാൽ ഞാൻ ഈ ഭാഷ സംസാരിക്കാത്തതിനാൽ ഞാൻ ധാരാളം തെറ്റുകൾ വരുത്തുമെന്ന് നിങ്ങൾക്ക് ഭയമുണ്ട് എന്നാൽ വസ്തുത ഒരു ഇന്ത്യൻ ഹിന്ദി സംസാരിക്കുന്നയാൾക്ക് മാത്രമല്ല ഒരു അമേരിക്കക്കാരനും ഉണ്ട് സംസാരിക്കുക എന്നതാണ് വസ്തുത പലരും പൊതുപ്രസംഗം ഒഴിവാക്കും പൊതുപ്രസംഗത്തിന് മുമ്പ് വരേണ്ടതാണെന്ന് ഞങ്ങൾ സാധാരണയായി കരുതുന്ന മറ്റ് ചില കാര്യങ്ങളോടുള്ള അവരുടെ ഭയം യഥാർത്ഥത്തിൽ അവർ പിന്തുടരുന്നുണ്ടെന്ന് അത് പറയുന്നു നിങ്ങളോട് ഒരു വാക്കാലുള്ള അവതരണം നൽകാൻ ആവശ്യപ്പെടുമ്പോൾ അത് കൃത്യമായ ആശയവിനിമയ ഉദ്ദേശ്യം മനസ്സിൽ വെച്ചുകൊണ്ട് പരസ്യമായി സംസാരിക്കുന്ന ഒരു ഔപചാരിക പ്രവർത്തനമാണ് ചിലപ്പോൾ പരസ്യമായി സംസാരിക്കുമ്പോൾ ആശയവിനിമയത്തിന്റെ ഉദ്ദേശ്യം വളരെ വ്യക്തമല്ല അതിനാൽ രാഷ്ട്രീയക്കാരൻ വന്ന് സംസാരിക്കുന്നു ചിലപ്പോൾ ഏതെങ്കിലും പാർട്ടിക്കെതിരെ പറയുകയോ എന്തെങ്കിലും അവതരിപ്പിക്കാൻ ശ്രമിക്കുകയോ ചെയ്യുന്നു പക്ഷേ വാക്കാലുള്ള അവതരണത്തിൽ ഉദ്ദേശ്യം വളരെ വ്യക്തമാണ് അതിനാൽ നിങ്ങൾ ഒരു നിർദ്ദേശം നൽകുന്നു തുടർന്ന് നിങ്ങൾക്ക് കുറച്ച് ഫണ്ട് ലഭിക്കുന്നു നിങ്ങൾ ഒരു അവതരണം നൽകുന്നു തുടർന്ന് നിങ്ങളെ വിലയിരുത്താനും നിങ്ങൾക്ക് കുറച്ച് ബിരുദം നൽകാനോ നിങ്ങൾക്ക് ചില ഗ്രേഡുകൾ നൽകാനോ ആളുകളുണ്ട് ഇപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ ഭയം അതിനാൽ വാക്കുകൾ പുറത്തുവരുന്നില്ലെന്ന് നിങ്ങൾക്ക് തോന്നിയാലും നിങ്ങളുടെ തൊണ്ടയിൽ ശ്വാസംമുട്ടുന്ന ഈ ഭയം ഉണ്ട് നിങ്ങൾ വിയർക്കുന്നു അതിനാൽ കൈ നനയുന്നു തുടർന്ന് അത് ചത്ത മത്സ്യം പോലെ മാറുന്നു തുടർന്ന് ഹൃദയമിടിപ്പ് വർദ്ധിക്കുന്നതായി നിങ്ങൾക്ക് തോന്നുന്നു തുടർന്ന് ശരീരം മുഴുവൻ കുലുങ്ങുന്നു അത് വളരെ പരിഭ്രാന്തിയാണ് അതിനാൽ കാലുകൾ ഉറച്ചുനിൽക്കുന്നില്ല നിങ്ങൾക്ക് ബോധക്ഷയം തോന്നുന്നു എപ്പോൾ വേണമെങ്കിലും നിങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ അബോധാവസ്ഥയിലാകുകയും അത് ഒരു പൊതു നാണക്കേട് പോലെ കാണപ്പെടുകയും കാലുകൾ കുലുങ്ങുകയും ചെയ്യും അതിനാൽ അവർക്ക് ഉറച്ചുനിൽക്കാൻ കഴിയില്ല ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് പിന്നെ എന്തുകൊണ്ടാണ് ഈ ഭയം നിങ്ങൾക്ക് മാത്രമുള്ളത് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ മറ്റ് നിരവധി ആളുകൾക്ക് ഇത് അനുഭവപ്പെടുന്നത് ഒരു അമേരിക്കക്കാരനെപ്പോലെ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരാൾക്ക് പോലും പരസ്യമായി സംസാരിക്കുന്നത് ഒരു ഭയമാണ് അതിനാൽ ബുക്ക് ഓഫ് ലിസ്റ്റ് എന്ന പേരിൽ ഒരു പുസ്തകമുണ്ട് അതിനാൽ ലിസ്റ്റ് എന്ന പുസ്തകത്തിൽ ഒരു ഗ്രൂപ്പിന് മുന്നിൽ ആളുകൾ സംസാരിക്കുന്ന ഏറ്റവും വലിയ ഭയവും ഏറ്റവും വലിയ ഭയവും അമേരിക്കക്കാരെക്കുറിച്ചുള്ള ഒന്നാം നമ്പർ ഭയമാണ് മരണം ഏഴാം സ്ഥാനത്താണ് വരുന്നതെന്ന് അറിയുമ്പോൾ നിങ്ങൾ പോലും ആശ്ചര്യപ്പെടും മുമ്പുള്ള ആറ് ഇനങ്ങൾക്കും നിങ്ങൾക്ക് പാമ്പുകളുള്ള മറ്റ് ആറ് ഇനങ്ങൾക്കും ശേഷം മാത്രമേ ആളുകൾ മരണത്തെ ഭയപ്പെടുന്നുള്ളൂ നിങ്ങൾക്ക് പ്രാണികളുണ്ട് മുകളിൽ നിങ്ങൾക്ക് പരസ്യമായി സംസാരിക്കാം അതിനാൽ ഒരു നേറ്റീവ് സ്പീക്കർക്ക് പോലും പൊതുപ്രസംഗത്തിൻറെ കാര്യത്തിൽ ഭയം ഉണ്ട് അതിനാൽ അത് ഏതെങ്കിലും ഭാഷ പരിഗണിക്കാതെ തന്നെ അതിനാൽ ഭാഷ യഥാർത്ഥ തടസ്സമല്ല ഭാഷയാണ് പ്രശ്നമെന്ന് നിങ്ങളിൽ ഭൂരിഭാഗവും കരുതുന്നു അതിനാലാണ് നിങ്ങൾ സംസാരിക്കാൻ ഭയപ്പെടുന്നത് പ്രശ്നം നിങ്ങളുടെ മനസ്സിലാണ് നിങ്ങളുടെ മനസ്സിലാണ് നിങ്ങളുടെ ചിന്തയിലാണ് അതിനാൽ ആളുകൾ എന്തിനാണ് ആദ്യം ഭയപ്പെടുന്നത് എന്നെ കളിയാക്കുമെന്ന് ആളുകൾ ഭയപ്പെടുന്നു ഞാൻ ഒരു തെറ്റ് ചെയ്യുമ്പോൾ ഞാൻ ലജ്ജിക്കും ഞാൻ ചില വ്യാകരണ പിശകുകൾ വരുത്തുമ്പോൾ ആളുകൾ എന്നെ നോക്കി ചിരിക്കും അതിനാൽ ഞാൻ എന്നെക്കുറിച്ച് അത്തരമൊരു വലിയ മതിപ്പ് സൃഷ്ടിച്ചു പക്ഷേ ആ ഉച്ചാരണത്തിൽ എനിക്ക് തെറ്റ് സംഭവിക്കുമ്പോൾ ആളുകൾ എന്നെ കളിയാക്കില്ല ആ വസ്തുതയിൽ ഞാൻ തെറ്റ് ചെയ്താൽ ആളുകൾ എന്നെ വിമർശിക്കും പിന്നെ എവിടെയാണ് എന്റെ ബഹുമാനം എവിടെയാണ് എന്റെ അഹങ്കാരം അതിനാൽ അതിനുശേഷം എനിക്ക് അവരെ അഭിമുഖീകരിക്കാൻ കഴിയില്ല അതിനാൽ ഇത് നിങ്ങൾ പരസ്യമായി ലജ്ജിക്കുമെന്ന് അപമാനിക്കപ്പെടുമെന്ന് ഭയപ്പെടുന്നു നിങ്ങൾ ആളുകളുമായി സംസാരിക്കുന്നു നിങ്ങളുടെ ആശയങ്ങൾ പ്രകടിപ്പിക്കുന്നു പക്ഷേ ഫോണിൽ ചെറിയ ഗ്രൂപ്പായി നിങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല ഫേസ്ബുക്കിൽ ആ വ്യക്തിയെ കാണുകയോ ഇമെയിൽ ചെയ്യുകയോ ഫേസ്ബുക്കിൽ ആ വ്യക്തിയെ കാണുകയോ ഇമെയിൽ ചെയ്യുകയോ ചെയ്യാതെ ചാറ്റ് ഉപയോഗിച്ച് എന്തെങ്കിലും എഴുതാൻ നിങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല എന്നാൽ നിങ്ങൾക്ക് മുന്നിൽ ആളുകളെ മുഖാമുഖം കാണുകയും അവർ വലിയ ഗ്രൂപ്പുകളിലായിരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പ്രശ്നമുണ്ട് ചെറിയ ഗ്രൂപ്പുകളുള്ളതിനാൽ നിങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല അതിനാൽ ഞങ്ങളുടെ ജനനം മുതൽ നിങ്ങൾക്ക് പരിചിതമല്ലാത്തതിനാൽ ഞങ്ങൾ യഥാർത്ഥത്തിൽ എല്ലായ്പ്പോഴും ആയിരക്കണക്കിന് ആളുകളുമായി സംസാരിക്കുന്നില്ല ഞങ്ങൾ എല്ലായ്പ്പോഴും ചെറിയ ആളുകളുമായി സംസാരിക്കുന്നു ഒരു സമയം ഒന്നോ രണ്ടോ ആളുകൾ അതിനാൽ സാഹചര്യത്തെക്കുറിച്ചുള്ള അപരിചിതതയും നിങ്ങൾക്ക് ഒരുതരം ഭീഷണി നൽകുന്നതിന്റെ കാരണം അതാണ് പിന്നെ പൊതുവായി സംസാരിക്കാൻ ഭയപ്പെടുന്ന മിക്ക മനുഷ്യരിലും ഒരു പൊതുവായി സംസാരിക്കാൻ ഭയപ്പെടുന്ന ജീവികൾ എന്തോ തെറ്റ് സംഭവിക്കുമെന്ന അനിശ്ചിതത്വത്തിന്റെ വികാരമാണ് മൈക്ക് പ്രവർത്തിക്കില്ലെന്ന് ഞാൻ ഒരു പ്രസംഗം നൽകിയാൽ അതിനാൽ എന്റെ പവർ പോയിന്റ് പ്രവർത്തിക്കില്ല ഞാൻ പ്രസംഗം നൽകിയാൽ എന്തെങ്കിലും തെറ്റ് സംഭവിക്കും അപ്പോൾ ഞാൻ എന്തിന് അത് നൽകണം അതിനാൽ നല്ല പ്രഭാഷണങ്ങൾ നൽകുന്നതിൽ ഞാൻ ഭാഗ്യവാനല്ലെന്ന് ചെയ്യുന്നതിൽ ഞാൻ നല്ലവനല്ല അതിനാൽ ഇവ മനസ്സിനെ നിരോധിക്കുന്ന ചിന്തകളാണ് തുടർന്ന് ഇവയെ എങ്ങനെ മറികടക്കാമെന്ന് ഞാൻ നിങ്ങളോട് പറയാം ഈ ഭയത്തെ സ്റ്റേജ് ഭയം എന്ന് വിളിക്കുന്നു അതിനാൽ ഇത് ഒരു പ്രഭാഷണം നടത്താൻ ഒരു പ്രസംഗം നൽകാൻ പക്ഷേ വേദിയിൽ വന്ന് പ്രകടനം നടത്തേണ്ട ആർക്കും അത് ഒരു നർത്തകിയായിരിക്കാം ഒരു നടനായിരിക്കാം പ്രശസ്ത ഷേക്സ്പിയർ നടൻ ലോറൻസ് ഒലിവിയർ നൽകുമ്പോൾ ഷേക്സ്പിയർ നാടകമായ ഹാംലെറ്റിൻ്റെ ആയിരമോ അതിലധികമോ പ്രകടനങ്ങൾ ഉണ്ടായിരിക്കാം അതിനാൽ അഭിമുഖം നടത്തിയവരിൽ ഒരാളോട് ആളുകൾ ചോദിച്ചു തനിക്ക് ഭയമുണ്ടോ എന്ന് അദ്ദേഹം ചോദിച്ചു തീർച്ചയായും അദ്ദേഹം പറഞ്ഞു അതെ പക്ഷേ അവ ആദ്യ നിമിഷങ്ങളിലാണ് അതിനാൽ ഭാഷ നന്നായി സംസാരിക്കാൻ കഴിയുന്ന പരിചയസമ്പന്നനായ ഒരു നടന് പോലും ഡയലോഗ് ഹൃദയം കൊണ്ട് അറിയാവുന്ന ചില ഭയങ്ങളുണ്ട് അത് അനിശ്ചിതത്വത്തെക്കുറിച്ചായിരിക്കാം അത് ഏതെങ്കിലും തരത്തിലുള്ള മാനസിക ഭീഷണിയായിരിക്കാം അത് സാധാരണമാണ് അതിനാൽ നിങ്ങൾ ആത്മവിശ്വാസമുള്ളവരായിരിക്കണം എന്നതാണ് പ്രധാനം അതിനാൽ അദ്ദേഹത്തിന് ആ ചെറിയ ഭയം താൻ പോകുമെന്നും താൻ കൈകാര്യം ചെയ്യുമെന്നും തുടർന്ന് വിജയകരമായി പുറത്തുവരുമെന്നും ചെറിയ ഭയം അദ്ദേഹത്തിന് വളരെ ആത്മവിശ്വാസമുണ്ടായിരുന്നു കാരണം അദ്ദേഹത്തിന് ഈ പോസിറ്റീവ് സ്വയം പ്രതിച്ഛായയുണ്ട് അതിനാൽ ഏത് സാഹചര്യത്തിലായാലും ഒരു പോസിറ്റീവ് സ്വയം പ്രതിച്ഛായയുണ്ട് അതിനാൽ ഞാൻ ഒരു പ്രസംഗം നൽകാൻ തീരുമാനിച്ചുകഴിഞ്ഞാൽ ഞാൻ നൽകും എന്ത് സംഭവിച്ചാലും ഞാൻ അതിൽ നിന്ന് പുറത്തുവരും കാരണം ഞാൻ ചെയ്തതിനെക്കുറിച്ച് എനിക്ക് നല്ലത് തോന്നുന്നുവെങ്കിൽ മറ്റുള്ളവർ ഇപ്പോഴും എനിക്ക് പ്രശ്നമല്ല അതിനാൽ അത് പോസിറ്റീവ് സ്വയം പ്രതിച്ഛായയാണ് ഞാൻ മോശമാണെന്ന സ്വയം കുറച്ചുകാണുന്നത് ഒഴിവാക്കുക എനിക്ക് ഇത് ചെയ്യാൻ കഴിയില്ല മറ്റുള്ളവരുമായി സ്വയം താരതമ്യം ചെയ്യുന്നത് നിങ്ങൾ ഒഴിവാക്കണം അതിനാൽ അവൾ നന്നായി സംസാരിക്കുന്നുവെന്ന് കരുതുന്നത് അവളുടെ പദാവലി എന്നെക്കാൾ വളരെ മികച്ചതാണ് അവന് വളരെ ശക്തമായ ശബ്ദമുണ്ട് അവൾക്ക് നല്ല വ്യക്തിത്വമുണ്ട് അതിനാൽ അവൾ തെറ്റുകൾ ചെയ്താലും തെറ്റായ കാര്യങ്ങൾ പറഞ്ഞാലും ആളുകൾ അത് ശ്രദ്ധിക്കില്ല പക്ഷേ ഞാൻ അത് ചെയ്യുമ്പോൾ ആളുകൾ അത് ശ്രദ്ധിക്കും അതിനാൽ അത് താരതമ്യമാണ് എന്നാൽ എന്ത് സംഭവിച്ചാലും ഞാൻ ഇതിൽ പ്രാവീണ്യം നേടുമെന്നും ഈ ഭയം മറികടക്കാൻ ഞാൻ എല്ലാ ദിവസവും കുറച്ച് എന്തെങ്കിലും ചെയ്യുമെന്നും ഉള്ള ഈ ഭയത്തെക്കുറിച്ച് എന്തെങ്കിലും ചെയ്യാൻ നിങ്ങൾ ദൃഢനിശ്ചയത്തിലാണെങ്കിൽ നിങ്ങൾക്ക് ഇത് എങ്ങനെ മറികടക്കാൻ കഴിയും അതിനാൽ ഒരു ചെറിയ അനൌപചാരിക തലത്തിൽ പരിശീലിക്കാൻ ആരംഭിക്കുക 3 മിനിറ്റ് 5 മിനിറ്റ് 10 മിനിറ്റ് 15 മിനിറ്റ് 1 മണിക്കൂർ അവതരണം എന്നിവ നന്നായി തയ്യാറാക്കി ഒരു ചെറിയ പ്രഭാഷണം നടത്തുക തുടർന്ന് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും അവതരണത്തിനായി ആരെങ്കിലും നിങ്ങളോട് ആവശ്യപ്പെടാം എന്നാൽ തുടക്കത്തിൽ ആളുകൾ നിങ്ങളെ വിളിക്കുന്നില്ലെങ്കിൽ പോലും നിങ്ങൾ സന്നദ്ധസേവനം നടത്താൻ ശ്രമിക്കണം നിങ്ങൾ ഒരു ക്ലാസിലാണെങ്കിൽ അദ്ധ്യാപകൻ ആരോടെങ്കിലും ഒരു ചെറിയ അവതരണം നൽകാൻ ആവശ്യപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കൈ ഉയർത്തുക തുടർന്ന് നിങ്ങൾ സന്നദ്ധസേവനം നടത്തുക നിങ്ങൾ സന്നദ്ധപ്രവർത്തനം നടത്തിയാൽ നിങ്ങൾക്ക് ആന്തരിക ഊർജ്ജം ലഭിക്കാൻ തുടങ്ങും അതിനാൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ സമ്മതിച്ചുകഴിഞ്ഞാൽ കാര്യങ്ങൾ ശരിയാകും എന്നാൽ നിങ്ങൾ അതിൽ നിന്ന് ഒഴിഞ്ഞുമാറിയുകഴിഞ്ഞാൽ നിങ്ങൾ ആ ഭയ ഘടകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല പോരാട്ടത്തിലോ പറക്കൽ പ്രതികരണത്തിലോ മാത്രം നമ്മുടെ ശരീരത്തിലെ ഈ രസകരമായ ഹോർമോണായ അഡ്രിനാലിൻ സ്രവിക്കുന്നതിനെക്കുറിച്ച് ഞാൻ മുമ്പ് ചർച്ച ചെയ്തതുപോലെ ഓർക്കുക ഒന്നുകിൽ നിങ്ങൾ ഓടിപ്പോകണം അല്ലെങ്കിൽ നേരിടാൻ നിങ്ങൾ തിരഞ്ഞെടുക്കണം അതിനാൽ നിങ്ങൾ അത്തരം പ്രതികരണം നൽകുമ്പോൾ മാത്രമേ നിങ്ങളുടെ ശരീരത്തിലെ അഡ്രിനാലിൻ പമ്പുകൾ നിങ്ങൾക്ക് വളരെയധികം ഊർജ്ജം നൽകൂ തുടർന്ന് നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വയം കരുതിയതിനേക്കാൾ മികച്ച രീതിയിൽ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയും നിങ്ങളുടെ തൊണ്ട നല്ലതല്ലെന്ന് എല്ലാ മുടന്തൻ ന്യായീകരണങ്ങളും നൽകുന്നതിനുപകരം നിങ്ങളുടെ അവതരണ സമയം വരുമ്പോൾ ക്ലാസ്സിൽ ബങ്ക് ചെയ്യുന്നതിനുപകരം സംസാരത്തിൽ നിന്ന് ഓടിപ്പോകുന്നതിനുപകരം വഴക്കിടാനും സംസാരിക്കാനും നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ പനി ഉണ്ടെങ്കിൽ വയറുവേദനയുണ്ട് അതിൽ നിന്ന് ഓടിപ്പോകുന്നു നിങ്ങൾ പോരാടാൻ തിരഞ്ഞെടുക്കുകയും തുടർന്ന് ആളുകളെ അഭിമുഖീകരിച്ച് വേദിയിലേക്ക് പോകുകയും അഡ്രിനാലിൻ സ്രവിക്കുമെന്നും അപ്പോൾ നിങ്ങൾക്ക് ആ ഊർജ്ജം ലഭിക്കുമെന്നും സംസാരിക്കുകയും ചെയ്താൽ 23 മിനിറ്റിനുശേഷം എനിക്ക് ആളുകളുടെ മുന്നിൽ നിൽക്കാൻ കഴിയുമെന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾ ആത്മവിശ്വാസത്തിലാകും അതിനാൽ ആത്മവിശ്വാസം വരികയും അനുഭവപരിശീലനം പരിചയപ്പെടുത്തുകയും അത് വീണ്ടും വീണ്ടും ചെയ്യുക കുറച്ച് സമയത്തിന് ശേഷം ആളുകൾ നിങ്ങളോട് പറയും നിങ്ങൾ ഉപയോഗിച്ച വാക്ക് സങ്കൽപ്പിക്കാനാവാത്തതാണ് നിങ്ങൾ തിരഞ്ഞെടുത്ത വാക്ക് നിങ്ങൾ അത് എങ്ങനെ ചെയ്തു അതിനാൽ ഞാൻ ആ രീതിയിൽ സംസാരിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു ഞാൻ മുമ്പ് ആസൂത്രണം ചെയ്തിട്ടില്ലെങ്കിലും ഞാൻ ആ വാക്ക് ഉപയോഗിച്ചു പക്ഷേ അത് എങ്ങനെ സംഭവിച്ചു അഡ്രിനാലിൻ നിങ്ങളിൽ നിഷ്ക്രിയ പദാവലി എന്ന് വിളിക്കപ്പെടുന്നത് പുറത്തെടുക്കാൻ നിങ്ങളെ സഹായിക്കുന്നു ഈ അഡ്രിനാലിൻ ഉള്ളപ്പോൾ നിങ്ങളുടെ ഉപബോധമനസ്സിൽ ഉപയോഗിക്കപ്പെടാത്തത് നിങ്ങളുടെ ബോധമുള്ള മനസ്സിലേക്ക് സജീവമാകുമെന്ന് അത് സജീവമാക്കും അതിനാൽ എല്ലാ ദിവസവും നിങ്ങൾ ആയിരക്കണക്കിന് വാക്കുകൾ കേൾക്കുന്നു അതിൽ 10 വാക്കുകൾ നിങ്ങൾ ഓർമ്മിച്ചേക്കാം 5 നിങ്ങൾ ഉപയോഗിച്ചേക്കാവുന്ന 1 അല്ലെങ്കിൽ 2 നിങ്ങൾ തുടർന്നും ഉപയോഗിച്ചേക്കാവുന്ന 2 വാക്കുകൾ നിങ്ങൾ ഓർമ്മിക്കുന്നത് തുടരാം എന്നാൽ 89 വാക്കുകൾ നിങ്ങളുടെ മനസ്സിൽ നിഷ്ക്രിയമായി കിടക്കുന്നു പക്ഷേ അത്തരം ഒരു സാഹചര്യം വരുമ്പോൾ നിങ്ങൾ സ്വയം തള്ളുകയും നിങ്ങളുടെ ഭയത്തെ അഭിമുഖീകരിക്കുകയും ചെയ്യുമ്പോൾ അത് പുറത്തുവരും സംസാരം നൽകുന്നതിനെക്കുറിച്ചും മറ്റുള്ളവരെക്കുറിച്ച് നിങ്ങൾ ഇത്രയധികം വിഷമിക്കേണ്ടതില്ല എന്നതിനെക്കുറിച്ചും ഉള്ള മറ്റൊരു രസകരമായ കാര്യം ആളുകൾ അവരുടെ സ്വന്തം ചിന്തകളിലും അരക്ഷിതാവസ്ഥയിലും മുങ്ങിപ്പോകുന്നു എന്നതാണ് നിങ്ങൾ എത്ര തവണ ഒരു പുതിയ വസ്ത്രം ധരിച്ച് ആരുടെയെങ്കിലും മുന്നിൽ നിൽക്കുകയും എന്നിൽ എന്തെങ്കിലും മാറ്റം കാണുന്നുണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു അതിനാൽ എന്താണ് മാറ്റം എന്ന് അവർ പറയുന്നു ഞാൻ ഒന്നും കാണുന്നില്ല അതിനാൽ ഞാൻ ഒരു പുതിയ വസ്ത്രം ധരിക്കുന്നു അല്ലെങ്കിൽ ഞാൻ ഒരു പുതിയ പേനയോ മറ്റോ ഉപയോഗിക്കുന്നുണ്ടെന്ന് നിങ്ങൾ പറയണം അതിനാൽ അവർ നിങ്ങളെ നിരീക്ഷിക്കുന്നില്ല പ്രത്യേകിച്ചും ഒരു ക്ലാസ്റൂം സാഹചര്യത്തിലെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ആരംഭിച്ച 40 പേരടങ്ങുന്ന ഒരു ക്ലാസ്സിൽ നിങ്ങൾ പ്രഭാഷണം നടത്തുമ്പോൾ 5 മിനിറ്റ് ഒരു പ്രഭാഷണം നൽകാൻ അധ്യാപകൻ നിങ്ങളോട് ഓരോരുത്തരോടും ആവശ്യപ്പെട്ടിട്ടുണ്ട് 39 പേരും നിങ്ങളെ നോക്കുകയും തുടർന്ന് നിങ്ങളെ സൂക്ഷ്മപരിശോധന നടത്തുകയും തെറ്റായ കാര്യങ്ങൾ സ്കാൻ ചെയ്ത് നിങ്ങളിൽ നിന്ന് പുറത്തെടുക്കാൻ ശ്രമിക്കുകയാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നു നിങ്ങൾ പൂർണ്ണമായും തെറ്റായിരിക്കണം അവരെല്ലാം അവരുടെ സ്വന്തം ചിന്തകളിൽ നിരീക്ഷിക്കപ്പെടുന്നു എന്ന വസ്തുത നിങ്ങൾ മനസ്സിലാക്കണം അവരിൽ ചിലർ യഥാർത്ഥത്തിൽ നിങ്ങളെ കേൾക്കാൻ പോലും ബുദ്ധിമുട്ടുന്നില്ല അവർ നിങ്ങളെ നോക്കുന്ന ഒരു പോസ്റ്റ് സൃഷ്ടിക്കുന്നു പക്ഷേ അവർ യഥാർത്ഥത്തിൽ കേൾക്കുന്നില്ല എന്തുകൊണ്ടാണെന്ന് അവർ കേൾക്കുന്നു കാരണം അവരുടെ മനസ്സിൽ എൻ്റെ ഊഴം അടുത്തതായി വരുമെന്ന് അവർ കരുതുന്നു എൻ്റെ ഊഴം അടുത്തതായി വരും അതിനാൽ ചില വിദ്യാർത്ഥികൾക്ക് ഇത് എത്ര ഭയപ്പെടുത്തുന്നുവെന്ന് ആദ്യ ദിവസം സ്വയം പരിചയപ്പെടുത്തുന്നത് പോലെയുള്ള ഒരു ലളിതമായ കാര്യം പോലും ഞാൻ എങ്ങനെ പറയണം അതിനാൽ ഓരോരുത്തരും അത് ചെയ്യുമ്പോൾ ആ പെൺകുട്ടിയെപ്പോലെ ഞാൻ പിന്തുടരേണ്ടതാണെന്ന് ഞാൻ എന്താണ് പറയേണ്ടതെന്ന് ആരെങ്കിലും പെട്ടെന്ന് ശ്രദ്ധിക്കുന്നു ആ വ്യക്തി ഉപയോഗിച്ച ആ വാചകം ഞാൻ ഉപയോഗിക്കണം അവർ അത് ശ്രദ്ധിക്കുന്നു ചിലപ്പോൾ അവർ മനസ്സിൽ റിഹേഴ്സൽ തുടരുന്നു പക്ഷേ പകുതി സമയവും അവർ മറ്റുള്ളവർ എന്താണ് പറയുന്നതെന്ന് ശ്രദ്ധിക്കുന്നില്ല അതിനാൽ ആളുകൾ സാധാരണയായി അവരുടെ സ്വന്തം ചിന്തകളിലും അവരുടെ സ്വന്തം അരക്ഷിതാവസ്ഥകളിലും കുടുങ്ങിക്കിടക്കുന്നു എന്റെ ഊഴം വരുമ്പോൾ ഞാൻ എന്തുചെയ്യുമെന്ന് അവർ തന്നെ ഭയപ്പെടുന്നു അതിനാൽ നിങ്ങൾ പരിഭ്രാന്തരാകുമ്പോൾ പോലും അവർ ശ്രദ്ധിക്കുന്നില്ല അതിനാൽ അവർ എന്നെ നിരീക്ഷിക്കുന്നുണ്ടെന്ന് നിങ്ങൾ കരുതരുത് എന്റെ കാലുകൾ കുലുങ്ങുന്നു ഞാൻ ഒരു പേപ്പർ പിടിക്കുന്നു ആ പേപ്പർ കുലുങ്ങുന്നു അത് എനിക്ക് ഒരുതരം പരിഭ്രാന്തി നൽകുന്നു യഥാർത്ഥത്തിൽ ആളുകൾ പേപ്പർ കുലുങ്ങുന്നതായി പോലും കാണുന്നില്ല വാസ്തവത്തിൽ നിങ്ങളുടെ കാലുകൾ കുലുക്കുമ്പോൾ നിങ്ങൾക്ക് അസ്വസ്ഥത അനുഭവപ്പെടുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആന്തരിക മനസ്സിനോട് ശാന്തമായിരിക്കൂ എന്ന് പറയുക ഞാൻ അത് പൂർത്തിയാക്കും അതിനുശേഷം മാത്രമേ ഞാൻ പോകൂ അതിനാൽ നിങ്ങൾ അത് പൂർത്തിയാക്കി തുടർന്ന് പോയി നിങ്ങളുടെ ചില സുഹൃത്തുക്കളോട് ചോദിക്കുക ഞാൻ അൽപ്പം കുലുങ്ങുന്നതായി നിങ്ങൾ കണ്ടോ എന്ന് മിക്കവാറും എല്ലാവരും നിങ്ങളോട് പറയും നിങ്ങൾക്ക് ഇത്രയും ആത്മവിശ്വാസമുണ്ടെന്ന് ഞങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ലെന്ന് അതിനാൽ അത് പരീക്ഷിക്കുക നിങ്ങളുടെ നിഘണ്ടുവിൽ നിന്ന് നിങ്ങളുടെ മനസ്സിൽ നിന്ന് പൂർണ്ണമായും വലിച്ചെറിയുന്നത് ഉപേക്ഷിക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾ ശരിക്കും ഗൌരവമുള്ളവരാണെങ്കിൽ നിങ്ങളുടെ ഭയം ഇല്ലാതാക്കാൻ മൂന്ന് രഹസ്യങ്ങളുണ്ട് നിങ്ങൾക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന മറ്റാർക്കും നിങ്ങളെ സഹായിക്കാൻ കഴിയാത്ത ആദ്യത്തേതും പ്രധാനവുമായ കാര്യം നിങ്ങളുടെ വിഷയം അറിയുക നിങ്ങളുടെ വിഷയം അറിയാമെന്ന് ഞാൻ പറയുമ്പോൾ അതിനർത്ഥം പ്രശസ്ത എഴുത്തുകാരൻ മാർക്ക് ട്വെയ്ൻ നിങ്ങളുടെ വിഷയം നന്നായി അറിയുക എന്നാണ് അതിനാൽ ഉടനടി ഒരു പ്രസംഗം നടത്താൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു നിങ്ങൾ ഒരു തയ്യാറെടുപ്പുമില്ലാതെ വന്ന് ഒരു പ്രസംഗം നടത്തുക പ്രസംഗം നടത്താൻ കുറഞ്ഞത് ഒരാഴ്ചയെങ്കിലും സമയമെടുക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു അതിനാൽ നിങ്ങൾക്ക് വിഷയം നന്നായി അറിയാമെങ്കിൽ നിങ്ങൾ നൽകുന്ന ഏത് സംസാരത്തിനും നിങ്ങൾക്ക് ഇത്ര സമയം ആവശ്യമാണെന്നതിൽ ആളുകൾ ആശ്ചര്യപ്പെടുന്നു ആത്മവിശ്വാസം സ്വയമേവ വിഷയം നന്നായി അറിയുകയും അത് വീണ്ടും വീണ്ടും വായിക്കുകയും ചെയ്യും നിങ്ങൾ മറന്നുപോയാൽ നിങ്ങളുടെ കൈയിൽ കുറിപ്പുകൾ സൂക്ഷിച്ച് കുറിപ്പുകൾ എടുക്കുന്നു അതിനാൽ അത് നിങ്ങൾക്ക് അങ്ങേയറ്റം ആത്മവിശ്വാസം നൽകും തുടർന്ന് അടുത്തത് അത് നിങ്ങളുടെ വിഷയത്തിൽ വിശ്വസിക്കുന്നുവെന്ന് അറിയാൻ അടുത്താണ് അതിനാൽ ആഗോളതാപന കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് സംസാരിക്കാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു തുടർന്ന് ലഭ്യമായ എല്ലാ ശാസ്ത്രീയ വസ്തുതകളും നിങ്ങൾ നന്നായി തയ്യാറാക്കി എന്നാൽ യഥാർത്ഥത്തിൽ നിങ്ങൾ അതിൽ വിശ്വസിക്കുന്നില്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങളുടെ വിഷയത്തിന് നിങ്ങളുടെ പ്രേക്ഷകരിൽ ബോധ്യമുണ്ടാകില്ലെന്നും പ്രേക്ഷകർക്ക് ഉറക്കം അനുഭവപ്പെടുമെന്നും നിങ്ങൾ വിശ്വസിക്കാത്തപ്പോൾ അവർ എന്തുകൊണ്ടാണ് താൽപ്പര്യം കാണിക്കാത്തതെന്ന് നിങ്ങൾക്ക് അറിയില്ല കാരണം നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ നിങ്ങളുടെ ആശയങ്ങൾ നിങ്ങളുടെ ആന്തരിക ഹൃദയത്തിലൂടെ പ്രകടിപ്പിക്കപ്പെടുന്നില്ല എന്ന ചിന്തകൾക്ക് അഭിനിവേശം ഇല്ലാതാകുന്നു അതിനാൽ നിങ്ങൾ വിശ്വസിക്കുകയും വിശ്വസിക്കുന്ന വിഷയം അറിയുകയും ചെയ്താൽ ഭയം ഇല്ലാതാക്കാനുള്ള അടുത്ത രഹസ്യം പ്രാക്ടീസ് ചെയ്യുക പ്രാക്ടീസ് ചെയ്യുക പ്രാക്ടീസ് തുടരുക എന്നതാണ് ഒരു കുറുക്കുവഴിയുമില്ല ഒരിക്കൽ വീഡിയോ ടേപ്പ് ചെയ്ത കണ്ണാടി റെക്കോർഡ് ചെയ്യപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് വീണ്ടും കാണുകയും ചെയ്യുക നിങ്ങൾ ഉറക്കത്തിൽ ഉണർന്നാലും അത് ഹൃദയപൂർവ്വം ഉറങ്ങുകയും തുടർന്ന് പോയിന്റുകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ സൂക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് പറയാൻ അവർ നിങ്ങളോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു ഇപ്പോൾ അത് സമഗ്രമായ പരിശീലനത്തിൽ നിന്ന് വരുന്നതാണെങ്കിൽ ആവർത്തിച്ചുള്ള പരിശീലനത്തിൽ നിന്ന് തീർച്ചയായും ഒരു ഭയവും ഉണ്ടാകില്ല എന്നാൽ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് അത് മറികടക്കാൻ കഴിയുമെന്ന് ഞാൻ പറയുന്നു എന്നാൽ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ വിതരണം ചെയ്യാൻ തുടങ്ങുകയും നിങ്ങളുടെ പ്രേക്ഷകരുമായി ഒരു പിടി നേടുകയും ചെയ്താൽ അത് പോകും അതിനാൽ ആദ്യത്തേത് ചെറിയ ഉത്കണ്ഠയാണ് അവിടെ നമുക്ക് എങ്ങനെ ആ ഉത്കണ്ഠ കുറയ്ക്കാൻ കഴിയും ഒന്നാമതായി നിങ്ങളുടെ ഡെലിവറി ദൃശ്യവൽക്കരിക്കുക അതിന്റെ അവസാനം പ്രേക്ഷകർ നിങ്ങൾക്ക് ഒരു സ്റ്റാൻഡിംഗ് ഓവേഷൻ നൽകാൻ പോകുന്നുവെന്ന് സങ്കൽപ്പിക്കുക പ്രേക്ഷകരിൽ ഇരിക്കുന്ന നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തിയെ കൈയടിക്കാൻ ആളുകൾ പോകുന്ന ആ മികച്ച പ്രസംഗം നൽകിയതിന് അവർ നിങ്ങളെ വിലമതിക്കാൻ പോകുന്നു അതിനാൽ നിങ്ങൾ ഏറ്റവും വിജയകരമായ പ്രസംഗം നൽകുന്നുവെന്നും ആളുകൾ വളരെ സന്തുഷ്ടരാണെന്നും നിങ്ങളുടെ ഡെലിവറി ദൃശ്യവൽക്കരിക്കുക തുടർന്ന് അവർ വന്ന് നിങ്ങളെ അഭിനന്ദിക്കുന്നു പോസിറ്റീവായി ദൃശ്യവൽക്കരിക്കുക ഒരു നെഗറ്റീവ് ചിന്തയും ഏതൊരു നിഷേധാത്മക ചിന്തയും നിങ്ങൾ ആ മികച്ച പ്രസംഗം നൽകുമെന്ന് കരുതുകയും തുടർന്ന് നിങ്ങളുടെ വിഷയത്തെ ബഹുമാനിക്കാനുള്ള തയ്യാറെടുപ്പ് അറിയുകയും ചെയ്യുന്നു അതിനാൽ വിഷയം അറിയാൻ നിങ്ങൾ നന്നായി തയ്യാറാകണം പ്രേക്ഷകർ ആരാണെന്ന് അവരുടെ താൽപ്പര്യമെന്താണെന്ന് നിങ്ങൾ തയ്യാറാക്കണം തുടർന്ന് അതിനനുസരിച്ച് നിങ്ങൾ തയ്യാറെടുക്കുകയും ആ പരിശീലന അവതരണം നടത്തുമ്പോൾ നിങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിൽ നൽകുന്നുവെന്ന് സങ്കൽപ്പിക്കുക നിങ്ങൾ ചില ഡമ്മി പ്രേക്ഷകരെ ശേഖരിക്കുന്നു നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങളുടെ സഹോദരങ്ങൾ ബന്ധുക്കൾ എന്നിട്ട് നിങ്ങൾ അത് ചെയ്യുമ്പോൾ സംസാരിക്കുക യഥാർത്ഥത്തിൽ നിങ്ങൾ അവിടെ പോയി സംസാരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിനെ വിശ്രമിക്കുക നിങ്ങളുടെ മനസ്സിൽ ഒരു നിഷേധാത്മക സംസാരവും വരാൻ അനുവദിക്കരുത് മൊത്തത്തിൽ നിങ്ങളുടെ പ്രേക്ഷകരെ ബഹുമാനിക്കുക നിങ്ങൾ പറയുന്നതെന്തും രസകരമായിരിക്കണം നിങ്ങളുടെ അവതരണത്തിൽ ഒരു വാക്ക് പോലും നിങ്ങളുടെ അവതരണത്തിൽ പാഴാക്കാതിരിക്കുകയും പ്രേക്ഷകർക്ക് വീണ്ടും വീണ്ടും വന്ന് നിങ്ങളെ കേൾക്കാൻ തോന്നുകയും വേണം അതിനാൽ നിങ്ങൾ നന്നായി തയ്യാറാകുകയും പ്രേക്ഷകരുടെ സമയം ശ്രദ്ധിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ അത് അവരുടെ സമയം കാണുകയും അവരുടെ സമയം വിലപ്പെട്ടതാണെന്നും വിക്കിപീഡിയയിൽ നിന്ന് അവർക്ക് എന്തെങ്കിലും ലഭിക്കുമെങ്കിൽ അത് വിലപ്പെട്ടതാണെന്നും നിങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്നു അതിനാൽ എന്തുകൊണ്ടാണ് അവർ നിങ്ങളുടെ അടുത്തേക്ക് വരേണ്ടത് ഞാൻ ഈ വ്യക്തിയുടെ അടുത്തേക്ക് പോയാൽ ഈ വ്യക്തി എന്റെ സമയത്തെ ബഹുമാനിക്കുന്നുവെന്ന് എനിക്കറിയാമെന്ന് അവർ മനസ്സിലാക്കണം എന്നിട്ട് ഞാൻ 10 മണിക്കൂർ ചെലവഴിച്ചാലും ഈ വ്യക്തിയിൽ നിന്ന് വെറും 10 മിനിറ്റിനുള്ളിൽ എനിക്ക് എന്തെങ്കിലും വായിക്കാൻ കഴിയും അതിനാൽ ഞാൻ പോയാൽ സമയം ലാഭിക്കുകയും പാഴാക്കാതിരിക്കുകയും വളരെയധികം സമയം നേടുകയും ചെയ്യുന്നു അതിനാൽ നിങ്ങൾക്ക് ആ ഉറപ്പ് നൽകാൻ കഴിയുമെങ്കിൽ അതിനാൽ നിങ്ങൾ വളരെ വിജയകരവും ജനപ്രിയവുമായ ഒരു പ്രഭാഷകനായി മാറും ഇപ്പോൾ നിങ്ങൾ ഭയത്തെ മറികടക്കുമ്പോൾ പതുക്കെ തയ്യാറെടുക്കുകയും വിഷയം അറിയുകയും അടുത്ത ഘട്ടം ദൃശ്യവൽക്കരിക്കുന്നതിലൂടെ ഭയം ധൈര്യം വളർത്തുന്നതിലൂടെ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണെന്ന് ഓർത്തുകൊണ്ട് നിങ്ങൾ ആത്മവിശ്വാസം വളർത്തും ഇത് എല്ലാവർക്കും ബുദ്ധിമുട്ടാണെന്ന് മിക്കപ്പോഴും ആളുകൾക്കറിയാം അവരെ നിർബന്ധിക്കുന്നതിനുപകരം നിങ്ങൾ അവതരണം നൽകിയാൽ അവർ വളരെ സന്തുഷ്ടരാകും അതിനാൽ അദ്ധ്യാപകൻ നിങ്ങളെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അദ്ധ്യാപകൻ മറ്റുള്ളവരെ കുത്തിയതിൽ അവർ സന്തുഷ്ടരാണ് അതിനാൽ നിങ്ങൾ അത് ചെയ്യുന്നതിൽ അവർ സന്തുഷ്ടരാണ് ക്ലാസിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു അവർ ശത്രുക്കളല്ല അപൂർവമായി അറിയപ്പെടാത്ത സാഹചര്യങ്ങളിലൊഴികെ നിങ്ങളുടെ ശത്രുക്കളെപ്പോലെ പെരുമാറുന്ന ഒന്നോ രണ്ടോ ആളുകൾ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളെ വെറുക്കുന്നവരായിരിക്കാം അവർ നിങ്ങളെ ഇഷ്ടപ്പെടുന്നില്ല നിങ്ങൾ പ്രസംഗം നടത്തുമ്പോൾ പ്രശ്നകരമായ ചോദ്യങ്ങൾ ചോദിക്കാൻ അവർ ശ്രമിക്കുന്നു ഇപ്പോൾ നിങ്ങൾ നന്നായി തയ്യാറെടുത്തിട്ടുണ്ടെന്നും ആർക്കും നിങ്ങളെ പിടിക്കാൻ കഴിയില്ലെന്നും നിങ്ങൾക്ക് ഉറപ്പാണെങ്കിൽ മാത്രമേ ആ ആളുകളെ കൈകാര്യം ചെയ്യാൻ കഴിയൂ അതിനാൽ അവിടെയാണ് നിങ്ങളുടെ സഹായത്തിനായി സമഗ്രമായ തയ്യാറെടുപ്പ് വരുന്നത് അല്ലാത്തപക്ഷം നിങ്ങൾ സുഹൃത്തുക്കൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു നിങ്ങളെല്ലാവരും ഇതിൽ ഒരുമിച്ച് ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം നിങ്ങളെല്ലാവരും ഒരേ ബോട്ടിലാണ് സഞ്ചരിക്കുന്നത് നിങ്ങളുടെ പരീക്ഷകർ ശരിയായി തയ്യാറാക്കുന്നിടത്തോളം കാലം അത് പിഎച്ച്ഡി വിവ എം ടെക് തീസിസ് അവതരണം ബി പിഎച്ച്ഡി വിവ എം ടെക് തീസിസ് അവതരണം ബി ടെക് അവതരണം നിങ്ങൾ നൽകുന്ന ഏത് അവതരണവും നിങ്ങളുടെ പ്രകടനത്തിൽ നിന്ന് അവർ ഇത് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് നിങ്ങൾക്ക് പ്രതിഫലം നൽകുകയും ചെയ്യും നിങ്ങൾക്ക് ശ്വാസംമുട്ടൽ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതിനാൽ നിങ്ങൾ ഒന്നോ രണ്ടോ മിനിറ്റ് എടുക്കുകയും പിന്നീട് ആഴത്തിൽ ശ്വസിക്കുകയും ചെയ്യുന്നു അഭിമുഖത്തിന് മുമ്പ് അഭിമുഖത്തിന് മുമ്പ് പരസ്യമായി സംസാരിക്കുന്നതിന് മുമ്പ് ഈ റോവിംഗ് ടെക്നിക് നിങ്ങൾ കറങ്ങുന്നതുപോലെ സഹായിക്കുന്നു അതിനാൽ നിങ്ങൾ വെറുതെ ഒരു ബോട്ടിൽ കറങ്ങുകയാണ് നിങ്ങൾ ശ്വസിക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുന്ന ചില ആളുകൾക്ക് മൂന്നിരട്ടി ആഴത്തിൽ ശ്വസിക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുമ്പോൾ പോലും അവർക്ക് സ്വാതന്ത്ര്യം അനുഭവപ്പെടുന്നു ചില ആളുകൾക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്തിന്റെ അഞ്ചിരട്ടി ആവശ്യമാണ് പക്ഷേ ആഴത്തിൽ ശ്വസിക്കുക അതിനാൽ അത് യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഉത്കണ്ഠയെ അസ്വസ്ഥമാക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യത്തെ കുറച്ച് മിനിറ്റുകൾ ഏറ്റവും മോശമാണ് ചില സന്ദർഭങ്ങളിൽ ഇത് ഒരു നീണ്ട സംസാരമാണെങ്കിൽ അത് കുറച്ച് സെക്കന്റുകൾ മാത്രമാണ് ഒരു മിനിറ്റോ അതിൽ കൂടുതലോ നിങ്ങൾ ധൈര്യം ശേഖരിക്കുകയും തുടർന്ന് നിങ്ങൾ ആത്മവിശ്വാസം വളർത്തുകയും ചെയ്യും അതിനാൽ നിങ്ങൾ ആത്മവിശ്വാസം വളർത്തിയെടുത്താൽ നിങ്ങൾ ഇപ്പോൾ ഒരു പ്രൊഫഷണൽ പ്രഭാഷണം നടത്താൻ തയ്യാറാണ് ഇപ്പോൾ ഞാൻ അടുത്ത പ്രഭാഷണത്തിൽ ചർച്ച ചെയ്യും പക്ഷേ ഞാൻ നിങ്ങളെ വിടുന്നതിനുമുമ്പ് മറ്റൊരു റിയാലിറ്റി ഡെവലപ്മെന്റ് ബുക്ക് എഴുത്തുകാരൻ സീഗ്ലറിൽ നിന്ന് ഒരു ഉദ്ധരണി നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനാൽ ഭയത്തെക്കുറിച്ച് അദ്ദേഹം രസകരമായ ഒരു വ്യാഖ്യാനം നൽകുന്നു ഭയത്തിന് രണ്ട് അർത്ഥങ്ങളുണ്ടെന്ന് അദ്ദേഹം പറയുന്നു ഒന്ന് എല്ലാം മറന്ന് ഓടുക എല്ലാം മറന്ന് ഓടുക ഈ സാഹചര്യത്തിൽ നിന്ന് ഒളിച്ചോടുക ഡിയിൽ ഒരു നേതാവാണെങ്കിൽ നിങ്ങൾ ഉയർന്നുവരും നിങ്ങൾ യഥാർത്ഥത്തിൽ പൊതുഭാഷണം ഉപയോഗിച്ച് ആളുകളെ മാറ്റാൻ ജനിച്ചവരാണെങ്കിൽ നിങ്ങൾ വീണ്ടും ഉയർന്നുവരും അതിനാൽ നിങ്ങൾക്ക് മത്സരിക്കണോ ഉയർത്തണോ എന്ന് നിങ്ങൾ തീരുമാനിക്കണം തിരഞ്ഞെടുക്കുന്നത് നിങ്ങളുടേതാണ് നിങ്ങൾ ഉയരാൻ തീരുമാനിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കരിയറിൽ ഉയർന്നുവരാൻ ഞാൻ ഈ പ്രഭാഷണം അവസാനിപ്പിക്കുന്നു ഈ വീഡിയോ കണ്ടതിന് നന്ദി അടുത്ത പ്രഭാഷണത്തിൽ കാണാം